നമസ്കാരം കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തെക്കുറിച്ചും ഉറവിട പരിവർത്തനത്തെക്കുറിച്ചും ചർച്ചചെയ്തു എസി വിശകലനവുമായി ബന്ധപ്പെട്ട് വിവിധ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ഇന്നത്തെ സെഷനിൽ നമ്മൾ തെവെനിൻസ് Thevinin's നോർട്ടന്റെ Norton's സിദ്ധാന്തം പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യും എസി സർക്യൂട്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് ആ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ തെവെനിൻ Thevinin's നോർട്ടൺ Norton's സിദ്ധാന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യും എസി സർക്യൂട്ട് വിശകലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നോർട്ടൺ Norton's തെവെനിൻThevinin's തുല്യത എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും ഈ സാഹചര്യത്തിലും ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിലെന്നപോലെ തെവെനിന്റെയുംThevinin's നോർട്ടന്റെയും Norton's സിദ്ധാന്തങ്ങൾ എസി സർക്യൂട്ടിൽ പ്രയോഗിക്കുന്നു ഇപ്പോൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത ആവൃത്തികളുള്ള ഉറവിടങ്ങളുണ്ടെങ്കിൽ ഓരോ ഫ്രീക്വൻസി ഡൊമെയ്നിനും അനുയോജ്യമായ പ്രത്യേക സർക്യൂട്ടുകൾ സൃഷ്ടിച്ച് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ വ്യത്യസ്ത ആവൃത്തികൾക്കായി വ്യത്യസ്ത സർക്യൂട്ടുകളും സൃഷ്ടിക്കും ഒടുവിൽ സർക്യൂട്ട് പരിഹരിക്കാൻ നമ്മൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കും ഇപ്പോൾ തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് ഒരു ഫ്രീക്വൻസി ഡൊമെയ്നിനായുള്ള തെവെനിന്റെയുംThevinin's നോർട്ടന്റെയും Norton's സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കാം തത്തുല്യമായ സർക്യൂട്ട് തെവെനിന്റെയോ Thevinin's നോർട്ടണിന്റെയോ Norton's തുല്യതയല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമ്മൾ എങ്ങനെ തെവെനിന് Thevinin's തുല്യവും നോർട്ടൺ തുല്യവും Norton's സൃഷ്ടിക്കും നമുക്ക് ഒരു ലീനിയർ സർക്യൂട്ട് ഉള്ളപ്പോൾ ഡിസി സർക്യൂട്ട് വിശകലനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ച അതേ സാങ്കേതികത നമുക്ക് ഉപയോഗിക്കാം ഈ ലീനിയർ സർക്യൂട്ടിനെ തെവെനിൻസ് Thevinin's സിദ്ധാന്തത്തിൻറെ സഹായത്തോടെ തുല്യമായി പ്രതിനിധീകരിക്കാം തെവെനിൻ ഇംപിഡൻസ് തെവെനിൻ വോൾട്ടേജ് Thevinin's voltage ആയി സീരീസിൽ ആയിരിക്കും അതുപോലെ നോർട്ടന്റെ തുല്യമായ ലീനിയർ സർക്യൂട്ടിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അവിടെ എന്ന നോർട്ടൻ കറണ്ട് ഉറവിടം നോർട്ടന്റെ ഇംപെഡൻസിന് പാരലൽ ആയി ഉണ്ടാകും അതിനാൽ തെവെനിന് തുല്യവും നോർട്ടണിന് തുല്യവുമായ ഈ രണ്ട് സർക്യൂട്ടുകളും പരസ്പരം ഇരട്ടയും തെവെനിൻ വോൾട്ടേജ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് സാഹചര്യങ്ങളിലും തെവെനിന്റെ ഇംപിഡൻസുംThevinin's impedance നോർട്ടന്റെ ഇംപിൻഡൻസും Norton's impedance സമാനമായിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് തെവെനിന്റെ തുല്യത സർക്യൂട്ടിനെ നോർട്ടണിന് തുല്യമായി പരിവർത്തനം ചെയ്യാൻ കഴിയും കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് ഈ സമവാക്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം ഉദാഹരണത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിന്റെ ടെർമിനൽ a b യിലുടനീളം തെവെനിന് തുല്യമായത് കണ്ടെത്താൻ നമ്മൾ തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിക്കും ഇവിടെ നമ്മൾ ന്റെ മൂല്യം കണ്ടെത്തും വോൾട്ടേജ് ഉറവിടം 0 ആകുമ്പോൾ ടെർമിനൽ a b യിൽ നിന്ന് കാണുന്ന ഇംപിഡൻസാണ് വോൾട്ടേജ് ഉറവിടം 0 ആക്കുക എന്നതിനർത്ഥം വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആകുമെന്നും കറണ്ട് ഉറവിടം ഓപ്പൺ സർക്യൂട്ട് ആകുമെന്നാണ് ഈ സാഹചര്യത്തിൽ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആണ് കൂടാതെ സർക്യൂട്ടിന്റെ ടോപ്പോളജിക്കൽ വശത്തെക്കുറിച്ചുള്ള നമ്മളുടെ അറിവിന്റെ സഹായത്തോടെ ഈ പ്രത്യേക സർക്യൂട്ട് പുന ക്രമീകരിക്കും ഈ സർക്യൂട്ടിൽ ഇപ്പോൾ രണ്ട് 8 ഓം റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ ഇംപെഡൻസിന് പാരലൽ ആവും തുടർന്ന് ഇംപിഡൻസിൻറെ പാരലൽ കോമ്പിനേഷനുമായി സീരിസാണ് നമ്മളുടെ സർക്യൂട്ട് എങ്ങനെയിരിക്കും എഫ് ഡി എന്നിവ ഷോർട്ട് സർക്യൂട്ട് ചെയ്തത് കാണാം അതിനാൽ അവ ചിത്രത്തിൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു നിങ്ങൾ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എഫ് ഡി എന്നിവ ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെടില്ല കാരണം വോൾട്ടേജ് ഉറവിടത്തെ ഒരു ഷോർട്ട് സർക്യൂട്ടായി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അപ്ഡേറ്റ് സർക്യൂട്ട് ചിത്രത്തിൽ കാണുന്നതു പോലെയാണ് തെവെനിന് തത്തുല്യമായ റെസിസ്റ്റൻസ് ലഭിക്കുന്നത് ഇപ്പോൾ തെവെനിന് തത്തുല്യമായ സർക്യൂട്ട് ലഭിച്ചിരിക്കുന്നു തെവെനിൻ വോൾട്ടേജ് കണ്ടെത്തുക എന്നതാണ് അടുത്ത ചുമതല തെവെനിൻ വോൾട്ടേജ് a b ടെർമിനലിനു കുറുകെയുള്ള വോൾട്ടേജ് ആണ് അതിനാൽ എങ്ങനെ പരിഹരിക്കാം ആദ്യം നമ്മൾ I1 I2 എന്നീ വൈദ്യുതധാരകൾ കണ്ടെത്താൻ ശ്രമിക്കും I1 df ൻറെ ഭാഗത്തും I2 വലതുഭാഗത്തും ഒഴുകുന്നു അതിനാൽ ലൂപ്പ് bcdeab ന് ചുറ്റും കെവിഎൽ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ പരിഹരിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തെവെനിൻ ഇംപെഡൻസിന്റെ മൂല്യം ലഭിച്ചു അത് Zth ആണ് എന്നിട്ട് നമ്മൾ Vth ന്റെ മൂല്യം കണ്ടെത്തിയതിനാൽ തത്തുല്യമായ തെവെനിൻ വരയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് Vth ലഭിക്കും ഒപ്പം സീരീസിൽ കണക്കാക്കിയ Zth ഉം ലഭിക്കും സർക്യൂട്ടിന് തുല്യമായ തെവെനിൻ വീണ്ടും കണ്ടെത്തേണ്ട മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു ആശ്രിത കറണ്ട് ഉറവിടത്തെ കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടെത്തുന്നതിന് a b ടെർമിനലിലുടനീളം ഒരു വോൾട്ടേജിന്റെ മൂല്യം നമ്മൾ കണ്ടെത്തും അതിനാൽ എങ്ങനെ കണ്ടെത്താം ഈ ചിത്രം കണ്ടാൽ കറണ്ട് ഉറവിടത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം I0 0 5 I0 എന്നതിന് തുല്യമാണ് അതിനാൽ നിങ്ങൾ KCL ഈ നോഡിലേക്ക് പ്രയോഗിക്കുക നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് ഇങ്ങനെ എഴുതാം ഇപ്പോൾ വലതുവശത്തുള്ള ലൂപ്പിൽ കെവിഎൽ പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ കെവിഎൽ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം അഥവാ അതായത് ഇതാണ് തെവെനിൻ വോൾട്ടേജ് അടുത്ത ജോലി Zth കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് അതിനാൽ Zth കണ്ടെത്താൻ നമ്മൾ സ്വതന്ത്ര ഉറവിടം നീക്കം ചെയ്യണം ഈ കേസിലെ സ്വതന്ത്ര ഉറവിടം കറണ്ട് ഉറവിടമാണ് നിങ്ങൾ കറണ്ട് ഉറവിടം നീക്കംചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും ഇപ്പോൾ ടെർമിനൽ a b യിലുടനീളം ഉള്ളത് 3 ആമ്പിയർ മൂല്യമുള്ള ഒരു കറണ്ട് ഉറവിടമാണ് 3 ആമ്പിയർ എന്നുള്ളത് ഏകപക്ഷീയമായ തിരഞ്ഞ് എടുത്തതാണ് നിങ്ങൾക്ക് ഏത് മൂല്യവും കണക്കാക്കാം തെവെനിൻ ഇംപിഡൻസ് ആണ് നോഡിൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന വലതുവശത്തുള്ള ലൂപ്പിലേക്ക് കെവിഎൽ പ്രയോഗിക്കാം അതിനാൽ നിങ്ങൾ കെവിഎൽ പ്രയോഗിച്ചാൽ ലഭിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക ഉദാഹരണത്തിൽ നോർട്ടന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ab എന്ന ഭാഗത്തിലൂടെ ഒഴുകുന്ന കറൻറ് ഇന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ആദ്യം നോർട്ടന്റെ തുല്യമായ സർക്യൂട്ട് കണ്ടെത്താൻ നമ്മൾ ab ടെർമിനലിൽ നിന്ന് ലോഡ് നീക്കം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് നോർട്ടന്റെ തുല്യമായ എന്ന ഇംപെൻഡൻസിന്റെ മൂല്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നതിന്റെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെടുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ചെയ്യും കൂടാതെ കറണ്ട് ഉറവിടം ഓപ്പൺ സർക്യൂട്ട് ചെയ്യും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത സർക്യൂട്ട് ലഭിക്കും ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ 8 ഓം റെസിസ്റ്റൻസ് j2 ഓം റിയാക്ടൻസുള്ള കപ്പാസിറ്റൻസ്സിനൊപ്പം സീരിസ് ആണ് തുടർന്ന് 10 ഓം റെസിസ്റ്റൻസും റിയാക്ടൻസുമായി സീരിസ് ആണ് അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും കാരണം ഇവിടെ കണക്റ്റു ചെയ്തിരുന്ന വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലെഗ് പൂർണ്ണമായും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും ഈയൊരു കേസിൽ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും നിങ്ങളുടെ നോർട്ടണിന് തുല്യമായ ഇംപെഡൻസ് 5 ഓം ആണ് അടുത്ത ദൌത്യം നിങ്ങൾ ൻറെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ൻറെ മൂല്യം കണ്ടെത്തുവാനായി ab ടെർമിനലുകൾ ഷോട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിനുശേഷം ൻറെ മൂല്യത്തിനായി പരിഹരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് കറണ്ട് ഉറവിടം രണ്ട് ലൂപ്പുകൾക്കിടയിൽ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കാൻ കഴിയും കാരണം കറണ്ട് ഉറവിടം രണ്ട് മെഷുകൾക്കും പൊതുവായതാണ് മെഷ് 2 ഉം 3 ഉം അടങ്ങിയ ഒരു സൂപ്പർ മെഷ് നമ്മൾ സൃഷ്ടിക്കും തുടർന്ന് നമുക്ക് മെഷ് സമവാക്യം എഴുതാം മെഷ് 1 ൽ നിന്ന് സൂപ്പർമെഷിൽ നിന്ന് മെഷ് 2 നും 3 നും ഇടയിലുള്ള കറണ്ട് ഉറവിടം കാരണം നോഡ് a ൽ നമുക്ക് ലഭിച്ച ആദ്യത്തെ രണ്ട് സമവാക്യങ്ങൾ ചേർക്കുമ്പോൾ അതിനാൽ നിങ്ങൾക്ക് I2 ന്റെ മൂല്യം ഈ സമവാക്യത്തിൽ ഉൾപ്പെടുത്താം നോർട്ടൺ കറന്റ് എന്നത് നോർട്ടൺ തുല്യമായ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നതുപോലെ കറണ്ട് വിഭജനം അനുസരിച്ച് ഇനി നമുക്ക് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം എന്ന മറ്റൊരു സിദ്ധാന്തം നോക്കാം ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ആർഎൽ ലോഡുചെയ്യുന്നതിന് വൈദ്യുതി വിതരണ ശൃംഖല നൽകുന്ന പവർ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രശ്നം നമ്മൾ പരിഹരിക്കും എങ്ങനെ നമ്മൾ ഇത് പരിഹരിക്കും നമ്മൾ ഗണിതശാസ്ത്രപരമായി പരിഹരിച്ച് ആദ്യത്തെ സർക്യൂട്ടിനെ അതിന്റെ തെവെനിൻ തുല്യമായാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു തുടർന്ന് ലോഡ് റെസിസ്റ്റൻസ് തെവെനിൻ റെസിസ്റ്റൻസിനു തുല്യമാണെങ്കിൽ ഗണിതശാസ്ത്രപരമായി നമ്മൾ ലോഡിന് പരമാവധി പവർ നൽകുമെന്ന് തെളിയിച്ചു ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് തെളിയിച്ചു ഇപ്പോൾ എസി സർക്യൂട്ടിനായി ഇതേ ആശയം വ്യാപിപ്പിക്കും കൂടാതെ എസി ഉറവിടം സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി പവർ ലോഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും നമുക്ക് ഒരു ലീനിയർ സർക്യൂട്ട് പരിഗണിക്കാം ഒരു ലോഡ് ZL ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ലീനിയർ സർക്യൂട്ടിനെ ആദ്യം തെവെനിന് തുല്യമായി പരിവർത്തനം ചെയ്യും അതിനാൽ നമുക്ക് Zth നൊപ്പം സീരീസ് ആയി Vth ഉണ്ടാകും തുടർന്ന് ZL ലോഡ് തെവെനിൻ തുല്യമായ ടെർമിനലിലുടനീളം ബന്ധിപ്പിക്കും ലോഡിനെ സാധാരണയായി ഒരു ഇംപെഡൻസ് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ZL എന്നത് ലോഡിനെ പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്ഗ്യലർ ഫോമിൽ ZL Zth എന്നിവ പ്രതിനിധീകരിക്കാം നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക Zth എന്നത് Rth j Xth ആണ് അതിനാൽ ZL നിങ്ങൾക്ക് RL jXL എന്ന് എഴുതാം അടിസ്ഥാനപരമായി ഇത് മറ്റൊന്നുമല്ല Rth j XTh ഉം ZL എന്നത് RL plus j XL ന് തുല്യമാണ് ഇപ്പോൾ Zth ZL എന്നിവ റെസിസ്റ്റൻസും റിയാക്ക്ടെൻസ് ഘടകമായും വിഭജിക്കാം അടുത്തതായി ലോഡിലൂടെ ഒഴുകുന്ന കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ കറന്റിന്റെ മൂല്യം എന്താണ് കറന്റ് മറ്റൊന്നുമല്ല Vth നെ Zth ZL കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മൂല്യങ്ങളെ Zth ZL എന്നിവയുടെ റെക്റ്റാങ്ഗ്യലർ ഫോമിൽ മാറ്റിസ്ഥാപിക്കുക അതിനാൽ നിങ്ങൾക്ക് Rth j XTh plus RL j XL എന്ന് എഴുതാം ഇപ്പോൾ നിങ്ങൾക്ക് I ന്റെ മൂല്യം ലഭിച്ചു ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന ശരാശരി പവർ എന്താണ് ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന ശരാശരി പവർ വരെ തുല്യമായതിനാൽ എഴുതാം എന്തുകൊണ്ട് 1 ബൈ 2 ടേം വരുന്നു കാരണം ഇത് ആർഎംഎസ് മൂല്യമല്ല അതിനാൽ ഇത് ഒരു പീക്ക് മൂല്യമാണെങ്കിൽ നിങ്ങൾക്ക് P ൻറെ മൂല്യം 1 ബൈ 2 I സ്ക്വയർ R ആയി ലഭിക്കും അതിനാൽ I ആർഎംഎസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർഎംഎസ് സ്ക്വയർ R ൻറെ കൂടെ ഗുണിക്കാം അതാണ് ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന ശരാശരി വൈദ്യുതിയുടെ മൂല്യം ഇവിടെ ഈ സാഹചര്യത്തിൽ P 1 ബൈ 2 I സ്ക്വയർ R ആയിരിക്കും അതായത് Vth സ്ക്വയർ RL കൊണ്ട് ഗുണിച്ചതിനുശേഷം 2 കൊണ്ട് ഹരിക്കണം ഇത് ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന പവർ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നിട്ട് Vth Zth ZL എന്നിവയുടെ അടിസ്ഥാനത്തിൽ I ന്റെ മൂല്യം എഴുതാം അതിനാൽ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതു പോലെ നമുക്ക് Vth RL Rth എന്നിവയുടെ അടിസ്ഥാനത്തിൽ പവർ P എഴുതാം ഇപ്പോൾ അടുത്ത ചുമതല എന്താണ് ലോഡ് പാരാമീറ്റർ ക്രമീകരിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അതായത് RL ഉം XL ഉം P യുടെ മൂല്യം പരമാവധി ആണെന്ന് കാണിക്കണം P യുടെ പരമാവധി മൂല്യം എങ്ങനെ ലഭിക്കും ഇത് ചെയ്യുന്നതിന് നമ്മൾ ഡെൽ P ബൈ ഡെൽ R എന്നും ഡെൽ P ബൈ ഡെൽ XL 0 ന് തുല്യമാണെന്നും പറഞ്ഞു ഈ സമവാക്യം ഉപയോഗിച്ച് നമ്മൾ ഡെൽ P ബൈ ഡെൽ RL ഉം ഡെൽ P ബൈ ഡെൽ XL നേടണം നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഡെൽ P ബൈ ഡെൽ XL എന്നത് Vth സ്ക്വയർ RL Xth പ്ലസ് XL കൊണ്ടു ഗുണിച്ച് Rth പ്ലസ് RL സ്ക്വയർ പ്ലസ് Xth പ്ലസ് XL സ്ക്വയർ ഹോൾ സ്ക്വയർ നിങ്ങൾ എക്സ്എല്ലുമായി ബന്ധപ്പെട്ട സമവാക്യം ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ലഭിക്കുന്നത് അതുപോലെ ആർഎല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പവർ P ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഡെൽ പി ഡെൽ എക്സ്എൽ സജ്ജമാക്കുന്നത് 0 ന് തുല്യമാണ് എന്ത് സംഭവിക്കും അതിനാൽ ഇത് 0 ആകാൻ കഴിയില്ല ഇതും ആകാൻ കഴിയില്ല അതിനാൽ 0 ആകാൻ കഴിയുന്നത് Xth പ്ലസ് XL ആണ് അതിനാൽ നിങ്ങൾ Xth ഉം XL ഉം 0 ന് തുല്യമായി സജ്ജമാക്കുമ്പോൾ XL Xth ന്റെ മൈനസിന് തുല്യമായിരിക്കണമെന്ന നിബന്ധന നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ നിങ്ങൾ ഡെൽ പി ഉപയോഗിച്ച് ഡെൽ ആർഎൽ 0 ന് തുല്യമായി സജ്ജമാക്കുമ്പോൾ എക്സ്പ്രഷന്റെ ഈ പ്രത്യേക ഭാഗം പരിഹരിച്ചാൽ നിങ്ങൾക്ക് RL എന്നത് Rth സ്ക്വയറിൻറെയും Xth പ്ലസ് XL സ്ക്വയറിന്റെയും റൂട്ടിന് തുല്യമായാണ് ലഭിക്കുന്നത് ഇപ്പോൾ XL ന്റെ മൂല്യം Xth എന്ന് ഈ സമവാക്യത്തിൽ കൊടുക്കാം ഇത് ലളിതമാക്കാൻ കഴിയും കൂടാതെ RL Rth ന് തുല്യമാണ് ഇപ്പോൾ പരമാവധി പവർ ട്രാൻസ്ഫറിനു വേണ്ടിയുള്ള അവസ്ഥയുടെ എക്സ്പ്രഷൻ നേടി അതായത് XL Xth ന്റെ മൈനസിന് തുല്യമായിരിക്കണം RL Rth ന് തുല്യമായിരിക്കണം അതിനാൽ പരമാവധി ശരാശരി പവർ കൈമാറ്റത്തിനായി ZL അത്തരത്തിലുള്ള രീതിയിൽ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് എഴുതാം XL മൈനസ് Xth ന് തുല്യവും RL Rth ന് തുല്യവുമായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ZL RL പ്ലസ് jXL ന് തുല്യവും Rth മൈനസ് jXth ന് തുല്യവുമാണെന്ന് എഴുതാം ഇത് എന്താണ് ഇത് Zth ന്റെ കോംപ്ലക്സ് കോൻജഗേറ്റ് അല്ലാതെ മറ്റൊന്നുമല്ല തെവെനിൻ ഇംപിൻഡൻസിന്റെ കോംപ്ലക്സ് കോൻജഗേറ്റിന് തുല്യമാണ് ZL എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും കൈമാറ്റം ചെയ്യാനുള്ള പരമാവധി പവർ എന്തായിരിക്കും ഈ സാഹചര്യത്തിൽ P മാക്സ് പരമാവധി പവർ ചെയ്യുന്നത് Vth സ്ക്വയർ ബൈ തുല്യമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു RL ന്റെ മൂല്യം Rth ഉം XL മൈനസ് Xth ന് എന്ന് കൊടുക്കണം അതിനാൽ ഇത് ഏതുവിധേനയും പൂജ്യമാകും ഇത് 4Rth സ്ക്വയറിന് തുല്യമായിരിക്കും തുടർന്ന് ന്യൂമറേറ്ററിൽ Vth സ്ക്വയറിനെ Rth 2 കൊണ്ട് ഗുണിച്ചതായി ലഭിക്കും അതിനാൽ ഒരു Rth റദ്ദാക്കപ്പെടും ഒടുവിൽ നിങ്ങൾക്ക് Vth സ്ക്വയറിനെ 4 X 2 കൊണ്ട് ഹരിക്കാം അതായത് 8 Rth പരമാവധി പവർ ട്രാൻസ്ഫർ ചെയ്യുവാനായി നിങ്ങൾക്ക് ഇതാണ് ലഭിക്കുന്നത് ഡിസി സർക്യൂട്ടിൽ നിന്ന് താരതമ്യം ചെയ്താൽ ഇംപിഡൻസിലെ റിയാക്ടീവ് ഘടകത്തിന്റെ ആമുഖം കാരണം ഇത് അൽപം വ്യത്യസ്തമാണ് ലോഡ് പൂർണ്ണമായും യഥാർത്ഥമാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും XL 0 ന് തുല്യമായി ക്രമീകരിച്ചുകൊണ്ട് പരമാവധി പവർ കൈമാറ്റത്തിനുള്ള വ്യവസ്ഥ ലഭിക്കും നിങ്ങൾ എവിടെയാണ് മൂല്യം ഇടുക XL ന്റെ മൂല്യം ഇവിടെ 0 ന് തുല്യമായി സജ്ജമാക്കി നിങ്ങൾക്ക് എന്ത് ലഭിക്കും RL എന്നത് Rth സ്ക്വയറിന്റെയും Xth സ്ക്വയറിന്റെയും റൂട്ടിന് തുല്യമായിരിക്കും എന്നാൽ ac ആണെങ്കിൽ RL ന്റെ മൂല്യം Rth സ്ക്വയറിന്റെയും Xth സ്ക്വയറിന്റെയും റൂട്ടിന് തുല്യമായിരിക്കും എന്താണ് ഇത് അർത്ഥമാക്കുന്നത് പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡിലേക്കുള്ള പരമാവധി പവർ ട്രാൻസ്ഫർ ലോഡ് സംഭവിക്കുന്നത് ഇംപിഡൻസ് ഈ കേസിലെ റെസിസ്റ്റൻസ് തെവെനിൻ ഇംപിൻഡൻസിന്റെ തുല്യം ആവുമ്പോൾ ആണ് സർക്യൂട്ടിൽ പവർ പരമാവധി വർദ്ധിപ്പിക്കുന്ന ലോഡ് ഇംപെഡൻസ് ZL നിർണയിക്കാൻ നമ്മൾ പരമാവധി പവർ ട്രാൻസ്ഫർ ആശയം ഉപയോഗിക്കും നിങ്ങൾ സർക്യൂട്ട് കാണുകയാണെങ്കിൽ പ്രയോഗിച്ചിരിക്കുന്ന വോൾട്ടേജ് 10 ആംഗിൾ 0 ഉണ്ടാകും തുടർന്ന് ഈ വോൾട്ടേജ് സ്രോതസ്സുമായി 4 ഓം റെസിസ്റ്റൻസ് സീരീസ് ആയി ഉണ്ടാകും പാരലൽ ആയി ഈ കപ്പാസിറ്റർ റിയാക്ക്ടെൻസ് മൈനസ് ജെ 6 ഓമിനൊപ്പം 8 ഓം സീരീസും തുടർന്ന് ജെ 5 ഓം ഇൻഡക്റ്റർ റിയാക്ടൻസും ഉണ്ടാകും ഇപ്പോൾ ലോഡ് ZL ടെർമിനലിലുടനീളം ബന്ധിപ്പിച്ചിരിക്കുന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോഡ് ടെർമിനലുകളിൽ തെവെനിൻറെ തുല്യത നേടേണ്ടതുണ്ട് എന്നതാണ് അതിനാൽ ആദ്യം സർക്യൂട്ടിൽ നിന്ന് ലോഡ് നീക്കം ചെയ്യണം നീക്കംചെയ്യുമ്പോൾ ഇതുപോലുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് 10 വോൾട്ട് 4 ഓം 8 ഓം മൈനസ് j6j5 ഓം എന്നിവ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സർക്യൂട്ട് ലഭിക്കും തെവെനിൻസ് Thevinin's ഇംപെഡൻസ് കണ്ടെത്താൻ നിങ്ങൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് ഇതു 3പോലെയാകും ഈ 4 ഓം റെസിസ്റ്റൻസ് 8 ഓം റെസിസ്റ്റൻസ് ആയി പാരലൽ ആയിരിക്കും തുടർന്ന് മൈനസ് j6 ഓം റിയാക്ടന്റുമായി സീരീസ് ആയിരിക്കും നിങ്ങൾ ഇത് പരിഹരിച്ചാൽ ഇതിന്റെ പാരലൽ സംയോജനതിൻറെ ഫലവും ഇൻഡക്റ്റൻസ് നൽകുന്ന j 5 ഓം റിയാക്ടൻസും ചേർത്താൽ നിങ്ങൾക്ക് Zth 2 933 ഉം j 4 467 ഓമും ലഭിക്കും അതിനാൽ ഇത് പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് Zth ന്റെ മൂല്യം ലഭിക്കും ഇപ്പോൾ നിങ്ങൾ Vth ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ Vth കണ്ടെത്താനാകും ഇത് ലളിതമായ സർക്യൂട്ടാണ് അവിടെ നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവിഷൻ ആശയം ഉപയോഗപ്പെടുത്താനും Vth ന്റെ മൂല്യം കണ്ടെത്താനും കഴിയും അതിനാൽ Vth 8 പ്ലസ് മൈനസ് ജെ 6 നെ 8 മൈനസ് ജെ 6 പ്ലസ് 4 കൊണ്ട് ഹരിച്ചതിനുശേഷം 10 കൊണ്ട് ഗുണിക്കണം ഇത് പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 7 454 ആംഗിൾ മൈനസ് 10 3 ഡിഗ്രി വോൾട്ടായി Vth ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് Vth ഉം Zth ഉം ലഭിച്ചു അടുത്ത ദൌത്യം നിങ്ങൾ ZL ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ഇത് തെവെനിന് തുല്യമായ ടെർമിനലിലുടനീളം ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഡാണ് അതിനാൽ ZL പരമാവധി കൈമാറ്റത്തിനായി ZL ന്റെ മൂല്യം എന്തായിരിക്കും Zth ന്റെ കോംപ്ലക്സ് കോൻജഗേറ്റിനു തുല്യമായിരിക്കും ZL അപ്പോൾ ZL ന്റെ മൂല്യം എന്തായിരിക്കും ZL നിങ്ങൾക്ക് 2 933 മൈനസ് ജെ 4 467 ഓം എന്ന കോംപ്ലക്സ് കോൻജഗേറ്റ് Zth ഉപയോഗിച്ച് കണ്ടെത്താനാകും അതിനാൽ ലോഡ് ഇംപെഡൻസ് തെവെനിന് തുല്യമായത് സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഈ സെഷനിൽ എസി സർക്യൂട്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം നോർട്ടൺസ് തെവെനിൻ സിദ്ധാന്തം എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കാന്തികമായി ബന്ധിപ്പിച്ച സർക്യൂട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യും